ട്രാൻസ്ലേഷനെക്കുറിച്ചുള്ള വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ അവസാനത്തെ വീഡിയോയിൽ ഞാൻ ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഡിഎൻഎയിൽ എഴുതിയ വിവരങ്ങൾ ഒരു ആർഎൻഎ തന്മാത്രയിലേക്ക് പകർത്തുന്നത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടു അതിനാൽ RNA തന്മാത്ര നിങ്ങളുടെ ക്യൂ കാർഡ് ആയിരുന്നു അത് പിന്നീട് നീങ്ങി ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്ക് നീങ്ങാൻ കഴിയും അതിനാൽ ഇന്ന് നമ്മൾ ആരംഭിക്കാൻ പോകുന്നു വീഡിയോയുടെ ആരംഭ പോയിന്റ് mRNA ഇതിനകം സമന്വയിപ്പിച്ചതാണ് ഇപ്പോൾ ഈ എംആർഎൻഎ എങ്ങനെ വായിക്കപ്പെടുന്നു വായിച്ചതിനുശേഷം പ്രോട്ടീൻ എങ്ങനെ സമന്വയിപ്പിക്കപ്പെടുന്നു അതിനാൽ ട്രാൻസ്ലേഷൻ മനസിലാക്കാൻ mRNA യിൽ എഴുതിയിരിക്കുന്ന വിവരങ്ങൾ പ്രോട്ടീനുകളായി പരിവർത്തനം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ട്രാൻസ്ലേഷൻ എന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് അങ്ങനെയാണ് ട്രാൻസ്ലേഷൻ പ്രക്രിയ ഡിഎൻഎയിൽ എഴുതിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും സൂക്ഷ്മമായി പകർത്തിയ എംആർഎൻഎ തന്മാത്രയാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രാരംഭ മെറ്റീരിയൽ അതിനാൽ ഇത് ഇപ്പോൾ റൈബോസോമിന് വായിക്കേണ്ട സ്ക്രിപ്റ്റാണ് അതിനാൽ ഈ ട്രാൻസ്ലേഷൻ പ്രക്രിയയിൽ നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് 1 പ്രോട്ടീനുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണ് 2 ആ ഭാഷ നിങ്ങൾ എങ്ങനെയാണ് വായിക്കുന്നത് അതിനാൽ നമുക്ക് ആദ്യം ചേരുവകളിലേക്ക് വരാം mRNA തന്മാത്രയിലെ സ്ക്രിപ്റ്റ് തന്നെയാണ് ആദ്യത്തെ ചേരുവ പിന്നെ ഈ സമന്വയം മുഴുവൻ നടക്കുന്ന ഇടമായ ഷെഫ് ആയ റൈബോസോമുകൾ ആണ് റൈബോസോമുകൾക്ക് 2 യൂണിറ്റുകൾ ഉണ്ട് ഒരു ചെറിയ ഉപയൂണിറ്റും ഒരു വലിയ ഉപയൂണിറ്റും ഉണ്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഇതിലേക്ക് വരും പക്ഷേ ഇത് ചെറുതും വലുതുമായ 2 യൂണിറ്റുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഘടനയാണെന്ന് ഓർമ്മിക്കുക അതിനാൽ നിങ്ങൾക്ക് പാചകക്കാരനെ ആവശ്യമുണ്ട് പ്രോട്ടീനുകൾ നിർമ്മിക്കുന്ന ചേരുവകളും നിങ്ങൾക്ക് ആവശ്യമാണ് പ്രോട്ടീനുകൾ അമിനോ ആസിഡുകളാൽ നിർമ്മിതവുമാണ് അതിനാൽ നിങ്ങൾക്ക് അമിനോ ആസിഡുകൾ ആവശ്യമാണ് 20 വ്യത്യസ്ത അമിനോ ആസിഡുകൾ ഉണ്ട് ഈ 20 അമിനോ ആസിഡുകൾ വ്യത്യസ്ത പെർമ്യൂട്ടേഷനുകളിലും കോമ്പിനേഷനുകളിലും ക്രമീകരിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് വ്യത്യസ്ത പ്രോട്ടീനുകൾ ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് അമിനോ ആസിഡുകൾ ഉണ്ട് തുടർന്ന് നിങ്ങൾക്ക് ടിആർഎൻഎ എന്നറിയപ്പെടുന്ന ഒരു തന്മാത്രയുണ്ട് ഈ തന്മാത്ര യഥാർത്ഥത്തിൽ അമിനോ ആസിഡുകളെ പ്രോട്ടീൻ സമന്വയത്തിന്റെ സൈറ്റായ റൈബോസോമിലേക്ക് കൊണ്ടുവരുമെന്നതിനാൽ ഇതിനെ ട്രാൻസ്ഫർ ആർഎൻഎ എന്നും വിളിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് അമിനോ ആസിഡുകൾ തിരഞ്ഞെടുത്ത് റൈബോസോമുകളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന വ്യത്യസ്ത തരം ടിആർഎൻഎകൾ ഉണ്ടാകും ഇപ്പോൾ എന്താണ് ചേരുവകൾ നിങ്ങൾക്ക് സ്ക്രിപ്റ്റായ മെസഞ്ചർ ആർഎൻഎ ആവശ്യമാണ് നിങ്ങൾക്ക് പ്രോട്ടീൻ സിന്തസിസിന്റെ സൈറ്റ് ആയ റൈബോസോം ആവശ്യമാണ് പ്രോട്ടീനുകളുടെ അടിസ്ഥാന നിർമ്മാണ ബ്ലോക്കുകൾ ആയ അമിനോ ആസിഡുകളും നിങ്ങൾക്ക് ആവശ്യമാണ് ട്രാൻസ്ഫർ ആർഎൻഎ അല്ലെങ്കിൽ ടിആർഎൻഎ എന്നറിയപ്പെടുന്ന ഒരു തന്മാത്ര വഴി അമിനോ ആസിഡുകൾ റൈബോസോമുകളിലേക്ക് കടത്തിവിടുന്നു ഇനി നമുക്ക് ഭാഷയിലേക്ക് വരാം നമുക്ക് അടിസ്ഥാനപരമായി 4 ബേസുകളുണ്ടെന്ന് ഇപ്പോൾ നമുക്കറിയാം അതിനാൽ നിങ്ങൾക്ക് 4 ബേസ് ഉണ്ട് ഡിഎൻഎയുടെ കാര്യത്തിൽ അത് എ ടി ജി സി എന്നിവയാണ് എന്നാൽ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ആർഎൻഎ തന്മാത്രയിലാണ് അതിനാൽ ആർഎൻഎയുടെ കാര്യത്തിൽ T ക്ക് പകരം നമുക്ക് യു ഉണ്ടാകാൻ പോകുന്നു അതിനാൽ 4 അക്ഷരങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ലളിതമായി പറയുകയാണെങ്കിൽ ഡിഎൻഎയുടെ ഭാഷയ്ക്ക് 4 അക്ഷരങ്ങളുണ്ട് എ യു ജി സി ഇപ്പോൾ ഈ അക്ഷരങ്ങൾ കൂടിച്ചേർന്ന് പദങ്ങൾ രൂപപ്പെടുത്തണം ഓരോ പദവും ഒരു പ്രത്യേക അമിനോ ആസിഡ് അർത്ഥമാക്കണം അതിനാൽ നിങ്ങൾക്ക് ഓരോ അക്ഷരങ്ങളും ഒരു അമിനോ ആസിഡിനായി കോഡിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 സാധ്യതകൾ മാത്രമേയുള്ളൂ അവയിൽ 2 എണ്ണം ഒരു സമയം ഒരു അമിനോ ആസിഡിനായി കോഡ് ചെയ്യുകയാണെങ്കിൽ A U വും ആയി കോഡ് ചെയ്യുന്നു അല്ലെങ്കിൽ A ഉപയോഗിച്ച് G യുമായി സംയോജിപ്പിക്കാം അല്ലെങ്കിൽ A C യുമായി സംയോജിപ്പിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് 4 മുതൽ 16 വരെ വ്യത്യസ്ത സാധ്യതകൾ ഉണ്ടായിരിക്കും ഇതിൽ ഈ കോമ്പിനേഷനുകൾ സംഭവിക്കാം അതിനാൽ നിങ്ങൾക്ക് അടിസ്ഥാനപരമായി 16 വ്യത്യസ്ത വാക്കുകൾ ഉണ്ടാകും എന്നാൽ നിങ്ങൾക്ക് ഏകദേശം 20 അമിനോ ആസിഡുകൾ ഉള്ളതിനാൽ അത് ഇപ്പോഴും കുറയുന്നു അപ്പോൾ നമുക്ക് ഇപ്പോൾ അറിയാവുന്നത് യഥാർത്ഥത്തിൽ അവരിൽ 3 പേർ ഒരേ സമയം ഒരുമിച്ച് വരികയും തുടർന്ന് അവർ ഒരു വാക്കിനായി കോഡ് ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് അതിനാൽ നിങ്ങൾക്ക് 3 ഗ്രൂപ്പുകളായി സംയോജിപ്പിക്കുന്ന 4 ബേസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 4 മുതൽ 3 വരെ 64 വ്യത്യസ്ത സാധ്യതകൾ ഉണ്ട് നിങ്ങൾക്ക് 64 വ്യത്യസ്ത പദങ്ങളുണ്ട് ഓരോ വാക്കിനും എന്തെങ്കിലും അർത്ഥമുണ്ട് ഇപ്പോൾ ഓരോന്നും അതിനാൽ ജീവശാസ്ത്രത്തിൽ അക്ഷരങ്ങൾ 4 ആണ് എന്നാൽ ഈ അക്ഷരങ്ങൾ 3 ഗ്രൂപ്പുകളായി ക്രമീകരിച്ച് ഒരു കോഡ് രൂപീകരിക്കുന്നു അതിനെ കോഡൺ എന്ന് വിളിക്കുന്നു 64 കോഡൺ ഉണ്ട് അവയിൽ 61 എണ്ണം അമിനോ ആസിഡുകൾക്കായി കോഡ് ചെയ്യുന്നു അവയിൽ 3 എണ്ണം ഒരു അമിനോ ആസിഡിനും കോഡ് ചെയ്യുന്നില്ല ഉദാഹരണത്തിന് നിങ്ങൾക്ക് UAA UAG തുടർന്ന് UGA എന്നിവ ഉണ്ടായിരിക്കും ഇപ്പോൾ ഈ 3 കോഡണുകൾ അവ ഒരു അമിനോ ആസിഡിനും കോഡ് ചെയ്യുന്നില്ല എന്നാൽ അവയിൽ 61 എണ്ണം അമിനോ ആസിഡിനായി കോഡിംഗ് ചെയ്യുന്നു ഇപ്പോൾ വീണ്ടും ഒരു രസകരമായ പോയിന്റ് കൊണ്ടുവരുന്നു നിങ്ങൾക്ക് 61 കോഡണുകൾ ഉണ്ട് എന്നാൽ നിങ്ങൾക്ക് 20 അമിനോ ആസിഡുകൾ മാത്രമേ ഉള്ളൂ ഒന്നിൽ കൂടുതൽ കോഡോണുകൾക്ക് ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ കഴിയുമെന്ന് ഇപ്പോൾ കാണുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് GGG എന്ന് പറയും ഒരു അമിനോ ആസിഡിനായി കോഡ് ചെയ്യാൻ കഴിയും അതുപോലെ നമുക്ക് ഇത് ഗ്ലൈസിൻ കോഡുകൾ എന്ന് പറയാം ഉദാഹരണത്തിന് ഇപ്പോൾ അതേ അമിനോ ആസിഡിനെ GGC പോലെ മറ്റൊരു കോഡൺ വഴിയും കോഡ് ചെയ്യാൻ കഴിയും ഈ കോഡ് ഒരു ഗ്ലൈസിനും കോഡ് ചെയ്യുന്നു അതിനാൽ നിങ്ങൾക്ക് ഒരേ അമിനോ ആസിഡിനായി ഒന്നിലധികം കോഡണുകൾ ഉണ്ടായിരിക്കാം എന്നാൽ ഒരു കോഡണിന് 2 വ്യത്യസ്ത അമിനോ ആസിഡുകൾക്കായി കോഡ് ചെയ്യാൻ കഴിയില്ല ഞാൻ ഇത് ഒന്നുകൂടി വ്യക്തമാക്കട്ടെ അതിനാൽ നമുക്ക് അമിനോ ആസിഡ് ഒരു ഗ്ലൈസിൻ ആണെന്ന് പറയാം ഗ്ലൈസിൻ GGG അല്ലെങ്കിൽ GGC ഉപയോഗിച്ച് കോഡ് ചെയ്യാം അതിനാൽ ഗ്ലൈസിൻ 1 കോഡണിൽ കൂടുതൽ കോഡ് ചെയ്യാവുന്നതാണ് വാസ്തവത്തിൽ ഗ്ലൈസിൻ 4 വ്യത്യസ്ത കോഡണുകളാൽ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ ഗ്ലൈസിൻ എന്ന അതേ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന 4 വ്യത്യസ്ത കോഡണുകൾ ഉണ്ട് എന്നാൽ ഗ്ലൈസിനെ കോഡ് ചെയ്യുന്ന GGG അലനൈനെയും കോഡ് ചെയ്യുന്നത് സാധ്യമല്ല അത് അനുവദനീയമല്ല അതിനാൽ ജനിതക ഭാഷകൾ 3 ന്യൂക്ലിയോടൈഡുകൾ കൂടിച്ചേർന്ന് ഒരു വാക്ക് രൂപപ്പെടുന്നു അത് കോഡോണാണ് ഓരോ വാക്കും ഒരു പ്രത്യേക അമിനോ ആസിഡിന്റെ കോഡുകളാണ് ഒരു പ്രത്യേക അമിനോ ആസിഡിനായി നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കാം എന്നാൽ ഈ വാക്കിന്റെ അർത്ഥം അവ്യക്തമാണ് അതിനർത്ഥം ഇത് GGG ആണെങ്കിൽ അത് എല്ലായ്പ്പോഴും ഒരു ഗ്ലൈസിനായി കോഡ് ചെയ്യും മറ്റേതെങ്കിലും അമിനോ ആസിഡിന് കോഡ് ചെയ്യാൻ കഴിയില്ല അതിനാൽ അതാണ് ഭാഷ ഇപ്പോൾ ആ ഭാഷയുണ്ട് ആ ഭാഷ mRNA തന്മാത്രയിൽ ഇരിക്കുന്നു പക്ഷേ ആ ഭാഷ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും വേണം ഇപ്പോൾ ഭാഷയുടെ വ്യാഖ്യാനം ഭാഗികമായി ചെയ്യുന്നത് tRNA തന്മാത്രയാണ്

ഇപ്പോൾ tRNA വളരെ രസകരമായ ഒരു RNA തന്മാത്രയാണ് ഒരാൾ അതിന്റെ ദ്വിമാന ഘടന നോക്കുകയാണെങ്കിൽ അതിന് ഒരു ക്ലോവർ ഇലയുടെ ഘടനയുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അത് ഗ്രാമ്പൂ പോലെ കാണപ്പെടുന്നു നിങ്ങൾ കണ്ടെത്തുന്നത് ഈ ടിആർഎൻഎ തന്മാത്രയാണ് ഇത് സാധാരണയായി 80 ന്യൂക്ലിയോടൈഡുകൾ നീളമുള്ളതാണ് അതിനാൽ വ്യത്യസ്ത ടിആർഎൻഎകളുണ്ട് ഓരോ ടിആർഎൻഎയ്ക്കും ആന്റി കോഡൺ എന്ന് വിളിക്കുന്ന ഒരു പ്രദേശമുണ്ട് നമുക്ക് AUG എന്ന കോഡൺ എടുക്കാം ഇപ്പോൾ ഈ കോഡൺ ആന്റികോഡൺ വായിക്കേണ്ടതുണ്ട് അതിനാൽ ആന്റികോഡൺ കോഡണിന് കോംപ്ലിമെന്ററി ആയിരിക്കും അത് ഈ സാഹചര്യത്തിൽ UAC ആയിരിക്കും തൈമിൻ ഇല്ലാത്തതിനാൽ നിങ്ങൾക്ക് ഒരു യൂറാസിൽ ഉണ്ടാകും ഇത് വീണ്ടും ഒരു RNA ആണ് അത് DNA അല്ല യുറാസിൽ എല്ലായ്പ്പോഴും ഒരു അഡിനൈനുമായി ജോടിയാക്കും ഗ്വാനിൻ എല്ലായ്പ്പോഴും ഒരു സൈറ്റോസിനുമായി ജോടിയാക്കും അതാണ് പരസ്പരപൂരകത അതിനാൽ എല്ലാ കോഡണുകളിലും അതുപോലെ തന്നെ 61 കോഡണുകളിലും കോംപ്ലിമെന്ററി ആന്റികോഡണുകൾ ഉണ്ടായിരിക്കും അതിനാൽ ഓരോ ടിആർഎൻഎ തന്മാത്രയിലും ഒരു കോംപ്ലിമെന്ററി ആന്റികോഡണും മറ്റേ അറ്റത്ത് ഒരു അമിനോ ആസിഡും ഉണ്ടായിരിക്കും ഒരു പ്രത്യേക അമിനോ ആസിഡ് വഹിക്കുന്ന ഒരു കോഡണിന് വേണ്ടിയുള്ള അത്തരം ടിആർഎൻഎ തന്മാത്രയെ ചാർജ്ഡ് ടിആർഎൻഎ എന്നും വിളിക്കുന്നു ഈ ചാർജ്ജിംഗ് എല്ലാം എങ്ങനെ സംഭവിക്കുന്നു എന്നതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല കാരണം അത് മനസ്സിനെ വളരെ അലോസരപ്പെടുത്തുന്നു മാത്രമല്ല ആ വിശദാംശങ്ങളാൽ നിങ്ങളെ ശല്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കോഡുകൾ കോഡോനുകൾ ആണെന്ന് ഓർക്കുക 3 അക്ഷര കോഡുകൾ ഓരോ കോഡും ഒരു പ്രത്യേക അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നു തുടർന്ന് കോഡണിന് പൂരകമായ ആന്റികോഡൺ കാരണം കോഡ് tRNA വഴി ഡീകോഡ് ചെയ്യുന്നു ഓരോ ടിആർഎൻഎയും അതാത് അമിനോ ആസിഡ് കൊണ്ടുവരും ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവയിൽ 3 എണ്ണം സ്റ്റോപ്പ് കോഡണുകളാണ് അതിനാൽ UAA UAG UGA എന്നിവയ്ക്ക് tRNA തന്മാത്ര ലഭ്യമല്ല നിങ്ങളുടെ കൈവശമുള്ള AUG യ്ക്ക് ഇത് എല്ലായ്പ്പോഴും ആരംഭ കോഡണാണ് ഇത് ആദ്യത്തെ കോഡൺ കൂടിയാണ് അതിനാൽ നിങ്ങൾ ഒരു അക്ഷരത്തിൽ എഴുതുകയും The എന്നതിന്റെ വലിയ T ഉപയോഗിച്ച് ആരംഭിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നത് പോലെയാണ് ഇത് അതിനാൽ 64 കോഡണുകളിൽ 4 കോഡണുകൾ പ്രത്യേകതയുള്ളതാണ് ആരംഭ കോഡൺ ആയ AUG പിന്നെ UAA UAG UGA എന്നീ ടെർമിനേറ്റർ കോഡണുകളും ട്രാൻസ്ലേഷനിൽ എന്താണ് ചേരുവകൾ എന്നും ഭാഷ എങ്ങനെ വായിക്കപ്പെടുന്നുവെന്നും ഇവിടെ വരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നമുക്ക് ട്രാൻസ്ലേഷന്റെ യഥാർത്ഥ പ്രക്രിയ നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തത് ഒരു mRNA തന്മാത്ര വരച്ചു എന്നതാണ് അതിനാൽ ഈ mRNA തന്മാത്രയ്ക്ക് 5 പ്രൈം ക്യാപ് ഉണ്ട് ഇതിന് 3 പ്രൈം പോളി എ ടെയിൽ ഉണ്ട് ഇപ്പോൾ ഈ mRNA സൈറ്റോപ്ലാസത്തിൽ ഇരിക്കുന്നു എന്നിട്ട് അതിന് ഈ മുഴുവൻ സീക്വൻസുകളും ഉണ്ട് ഈ സീക്വൻസിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ ഇപ്പോൾ ഓരോ ആർഎൻഎ തന്മാത്രയ്ക്കും ഒരു പ്രത്യേക സിഗ്നേച്ചർ ഉണ്ട് അതിനെ റൈബോസോം ബൈൻഡിംഗ് സൈറ്റ് എന്ന് വിളിക്കുന്നു റൈബോസോമിന് ഒരു ചെറിയ ഉപയൂണിറ്റും വലിയ ഉപയൂണിറ്റും ഉണ്ട് അതിനാൽ റൈബോസോം ബൈൻഡിംഗ് സൈറ്റ് ഈ ചെറിയ ഉപയൂണിറ്റ് സ്കാൻ ചെയ്യുന്ന തരത്തിലാണ് ചെറിയ ഉപയൂണിറ്റിനെ കാണുന്നിടത്തെല്ലാം റൈബോസോമുകൾ കൂട്ടിച്ചേർക്കാൻ തുടങ്ങും അതിനാൽ റൈബോസോം ഇത് തിരിച്ചറിയുകയും റൈബോസോമിന്റെ ചെറിയ ഉപയൂണിറ്റ് കൂടിച്ചേരാൻ തുടങ്ങുകയും ചെയ്യും ഇതാണ് റൈബോസോമിന്റെ ചെറിയ ഉപയൂണിറ്റ് ഇപ്പോൾ ഈ ശ്രേണിയിൽ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നോക്കുകയാണെങ്കിൽ എന്താണ് ആരംഭ കോഡൺ ആരംഭ കോഡൺ AUG ആണ് അതിനാൽ നിങ്ങൾ ക്രമം നോക്കിയാൽ ഇത് UCC ആണ് പിന്നെ നിങ്ങൾക്ക് GAU ഉണ്ട് എന്നാൽ നിങ്ങൾ അൽപ്പം ശ്രദ്ധയോടെ വായിച്ചാൽ ഇത് AUG ആയി മാറുന്നു ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ ആരംഭ കോഡൺ അതിനാൽ ഭാഷയുടെ വായനയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന വശം വിരാമചിഹ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇത് ശരിക്കും ലളിതമാക്കുകയാണ് അതിനാൽ AUG ആദ്യ കോഡായി മാറുന്നു അടുത്ത കോഡ് എല്ലായ്പ്പോഴും 3 ന്റെ സെറ്റുകളിൽ ഇടവേളകളില്ലാതെ വായിക്കുന്നു അതിനാൽ ഇത് നിങ്ങളുടെ രണ്ടാമത്തെ കോഡണായി മാറുന്നു ഇത് എല്ലായ്പ്പോഴും AUG ആയ ആദ്യത്തെ കോഡണായി മാറുന്നു ആദ്യ കോഡൺ രണ്ടാമത്തെ കോഡൺ പിന്നെയും നിങ്ങൾ അടുത്ത ട്രിപ്ലറ്റ് ഇടവേളയില്ലാതെ വായിക്കുന്നു അതിനാൽ ഇത് നിങ്ങളുടെ മൂന്നാമത്തെ കോഡണായി മാറുന്നു തുടർന്ന് നിങ്ങൾക്ക് നാലാമത്തെ കോഡണുണ്ട് തുടർന്ന് നിങ്ങൾ അഞ്ചാമത്തെ കോഡണിലേക്ക് വരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചാൽ അഞ്ചാമത്തെ കോഡൺ ഒരു UAA ആണ് അത് സ്റ്റോപ്പ് കോഡൺ അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഈ പ്രക്രിയ ഇവിടെ നിർത്തും അതിനാൽ ഇത് ആർഎൻഎ തന്മാത്രയാണ് അതിലൂടെ നോക്കുകയും സ്കാൻ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ അതിൽ AUG ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും തുടർന്ന് GGG തുടർന്ന് മൂന്നാമത്തെ കോഡണും തുടർന്ന് നാലാമത്തെ കോഡണും തുടർന്ന് നിങ്ങൾ ഒരു സ്റ്റോപ്പ് കോഡണിലേക്ക് കുതിക്കുന്നു അതുകൊണ്ട് നമുക്ക് ട്രാൻസ്ലേഷൻ നോക്കാം ഇപ്പോൾ വിവർത്തനത്തിന് 3 ഘട്ടങ്ങളുണ്ട് ആദ്യ ഘട്ടം ഇനിസിയേഷൻ ആണ് രണ്ടാം ഘട്ടം ഇലോങ്യേഷൻ മൂന്നാം ഘട്ടം ടെർമിനേഷൻ ആണ് അതിനാൽ നമുക്ക് ഇനിസിയേഷൻ ആദ്യ ഘട്ടം നോക്കാം ഇനിസിയേഷനിൽ സംഭവിക്കുന്നത് റൈബോസോമാണ് റൈബോസോമിന്റെ ചെറിയ ഉപയൂണിറ്റ് ഈ mRNA സ്കാൻ ചെയ്യുകയും റൈബോസോം ബൈൻഡിംഗ് സൈറ്റിനെ അടിസ്ഥാനമാക്കി സ്വയം ഘടിപ്പിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഇവിടെ ഒരു ആരംഭ കോഡൺ ഉണ്ട് ഒരു ആരംഭ കോഡൺ ഉള്ളിടത്തെല്ലാം കോംപ്ലിമെന്ററി ആന്റികോഡണുള്ള ആദ്യത്തെ ടിആർഎൻഎ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് പറയാം ഇത് ആന്റികോഡൺ സൈറ്റാണ് അവ വന്ന് ബൈൻഡ് ചെയ്യും അതിനാൽ ഞാൻ ഇത് ഒരു ക്ലാമ്പ് പോലെയുള്ള ഘടനയായി വരയ്ക്കുകയാണ് ഒരു ഹുക്ക് പോലെയുള്ള ഘടന അതിനാൽ ഇത് അമിനോ ആസിഡാണ് അത് കൊണ്ടുവരുന്നത് മെഥിയോണിൻ അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ആദ്യത്തെ ടിആർഎൻഎ വന്നു അത് സ്റ്റാർട്ട് കോഡണിലേക്ക് ഡോക്ക് ചെയ്തു റൈബോസോമിന്റെ ചെറിയ ഉപയൂണിറ്റ് ഇരിപ്പിടത്തിൽ വന്നിരിക്കുന്നു ഇപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ ഇത് ആരംഭിക്കുന്ന പ്രക്രിയയിലെ ആദ്യ ഘട്ടമാണ് ഒരിക്കൽ ഇവ ഒന്നിച്ചു ചേർത്തു വെച്ചാൽ മാത്രമേ റൈബോസോമിന്റെ വലിയ ഉപയൂണിറ്റ് വന്ന് ഇരിക്കുകയുള്ളൂ അങ്ങനെ ഇരിക്കുന്ന റൈബോസോമിന്റെ വലിയ ഉപഘടകമാണിത് അതിനാൽ ഇത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ആർഎൻഎ തന്മാത്രയുണ്ട് ഇത് ആർഎൻഎ തന്മാത്രയെ പ്രതിനിധീകരിക്കുന്നു ചെറിയ ഉപയൂണിറ്റ് വന്ന് ബന്ധിപ്പിക്കുന്നു തുടർന്ന് വലിയ ഉപയൂണിറ്റ് വന്ന് മുകളിൽ ഇരിക്കും ഇപ്പോൾ ഞാൻ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ നിർഭാഗ്യവശാൽ ഇതൊരു 2 D ഡയഗ്രം ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്ന ചില ആനിമേഷൻ വീഡിയോകളിൽ ഇത് കൂടുതൽ വ്യക്തമാകും എനിക്ക് നിങ്ങളെ കാണിക്കാൻ കഴിയില്ല പക്ഷേ അവയ്ക്കുള്ള ലിങ്കുകൾ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് നൽകും അതിനാൽ നിങ്ങൾ അതിനെ കുറുകെ മുറിച്ച് ഒരു ക്രോസ് സെക്ഷൻ കാണുമ്പോൾ ഈ മുഴുവൻ വലിയ ഉപയൂണിറ്റും ചെറിയ ഉപയൂണിറ്റും mRNA യ്ക്കൊപ്പം വേണം അതിനാൽ ഇവിടെ ഒരു ഗ്രൂവ് ഉണ്ട് അതിലൂടെ ആർഎൻഎ കടന്നുപോകുന്നു മുഴുവൻ അസംബ്ലിയും ട്രാൻസ്ലേഷന് തയ്യാറാണ് ഇപ്പോൾ വലിയ ഉപയൂണിറ്റ് ക്രമീകരിച്ചാൽ ഏറ്റവും വലിയ ഉപയൂണിറ്റിന് 3 സൈറ്റുകളുണ്ട് അതിന് 3 വിഭാഗങ്ങളുണ്ട് ഇ സൈറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സൈറ്റ് പി സൈറ്റ് എ സൈറ്റ് എന്നിങ്ങനെ വിളിക്കപ്പെടുന്ന വിഭാഗങ്ങളുണ്ട് ഇപ്പോൾ അടുത്ത അമിനോ ആസിഡുകൾ കൊണ്ടുവരാൻ സിസ്റ്റം തയ്യാറാണ് ആദ്യത്തെ അമിനോ ആസിഡ് മെഥിയോണിൻ ആണ് ഇപ്പോൾ അടുത്ത ടിആർഎൻഎ വരുന്നു വീണ്ടും അത് അതിന്റെ ആന്റികോഡൺ ശ്രേണിയുടെ സഹായത്തോടെ ബന്ധിപ്പിക്കുന്നു അത് അടുത്ത അമിനോ ആസിഡ് കൊണ്ടുവരും നമുക്ക് അമിനോ ആസിഡ് 2 എന്ന് പറയാം GGG ആണെന്ന് തോന്നുന്നു ഞങ്ങൾ ഗ്ലൈസിൻ കോഡുകൾ ചർച്ച ചെയ്തു അതിനാൽ ഇത് രണ്ടാമത്തേതായി വരുന്നു ഇപ്പോൾ ഇൻകമിംഗ് ടിആർഎൻഎ എ സൈറ്റിൽ വരുന്നു ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 2 ടിആർഎൻഎകൾ അടുത്തടുത്തായി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പെപ്റ്റൈഡ് ബോണ്ടുകളുടെ രൂപീകരണ പ്രക്രിയ ഉണ്ടാകും പെപ്റ്റൈഡ് ബോണ്ടുകളുടെ പ്രക്രിയയിലൂടെ അമിനോ ആസിഡുകൾ ചേരുന്നുവെന്നത് ഓർക്കുക അതിനാൽ ഈ മെഥിയോണിൻ പെപ്റ്റൈഡ് ബോണ്ടിന്റെ രൂപീകരണത്തിലൂടെ രണ്ടാമത്തെ അമിനോ ആസിഡിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും ഒരിക്കൽ ഇത് സംഭവിച്ചാൽ അപ്പോൾ എന്താണ് സംഭവിക്കുക ഈ മുഴുവൻ റൈബോസോമും ഒരു കോഡൺ വഴി വലത്തേക്ക് മാറും അതിനാൽ ഇത് ഇപ്പോൾ ഒരു കോഡൺ വഴി വലത്തേക്ക് മാറും അതിനാൽ ഇപ്പോൾ മെഥിയോണിൻ കൈമാറ്റം ചെയ്യപ്പെട്ടു മെഥിയോണിൻ ഇപ്പോൾ ഈ ടിആർഎൻഎയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ മുഴുവൻ റൈബോസോമും മാറുന്നു ഇപ്പോൾ സംഭവിക്കുന്നത് റൈബോസോമിന്റെ ചെറിയ ഉപയൂണിറ്റ് ഇവിടെ ഇരിക്കുന്നു വലിയ ഉപയൂണിറ്റ് ഇവിടെ ഇരിക്കുന്നു അതിനാൽ ആദ്യ റൌണ്ടിൽ എ സൈറ്റ് ആയിരുന്നത് ഇപ്പോൾ പി സൈറ്റായി മാറുന്നു AUG ആണ് എക്സിറ്റ് സൈറ്റ് അതിനാൽ ഇപ്പോൾ tRNA ശൂന്യമാണ് അത് അതിന്റെ മെഥിയോണിൻ ദാനം ചെയ്തു അതിനാൽ ഇവിടെ നിന്ന് മെഥിയോണിൻ കൊണ്ടു വന്ന ടിആർഎൻഎ സ്വാതന്ത്രമാണ് അതിനാൽ ഈ ടിആർഎൻഎ ഇ സൈറ്റിൽ നിന്ന് പുറത്തുപോകും ഇത് പി സൈറ്റായി മാറുന്നു ഇപ്പോൾ എ സൈറ്റിൽ ഇരിക്കുന്നതിനെതിരെ വായിക്കാൻ തയ്യാറായ കോഡണാണിത് അതിനാൽ ഇപ്പോൾ ഈ സൈറ്റിൽ മൂന്നാമത്തെ ടിആർഎൻഎ വരും അത് കോഡണിനെ അതിന്റെ ആന്റികോഡണിലൂടെ വായിക്കുകയും മൂന്നാമത്തെ അമിനോ ആസിഡ് കൊണ്ടുവരുകയും ചെയ്യും ഈ 2 നും ഇടയിൽ വീണ്ടും ഒരു പെപ്റ്റൈഡ് ബോണ്ട് രൂപീകരണം ഉണ്ടാകും തുടർന്ന് ഈ ടിആർഎൻഎ ശൂന്യമാകും തുടർന്ന് ഈ ടിആർഎൻഎയും ഇ സൈറ്റിൽ നിന്ന് പുറത്തേക്ക് നീങ്ങുന്നു അങ്ങനെയാണ് ട്രാൻസ്ലേഷൻ പ്രക്രിയ നടക്കുന്നത് റൈബോസോം ഒരു കോഡൺ ഒരേസമയം സ്ലൈഡുചെയ്യുകയും mRNA ടെംപ്ലേറ്റിനൊപ്പം അത് വായിക്കുകയും ചെയ്യുന്നു കൂടാതെ അനുബന്ധ tRNA കൊണ്ടുവരുന്നു ഓരോ തവണ ചാർജ്ജ് ചെയ്ത tRNA വരുമ്പോഴും അത് മുമ്പത്തേ ടിആർഎൻഎയും ആയി പെപ്റ്റൈഡ് ബോണ്ടിന്റെ രൂപമായി മാറുന്നു അതിനാൽ പോളിപെപ്റ്റൈഡ് ചെയിൻ നീണ്ടുനിൽക്കുന്നത് തുടരുന്നു ഇപ്പോൾ റൈബോസോം സ്റ്റോപ്പ് സൈറ്റിനെ അഭിമുഖീകരിക്കുന്നത് വരെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇത് എങ്ങനെ സംഭവിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു യുട്യൂബിൽ വളരെ നല്ല ചില വീഡിയോകൾ ഉണ്ട് അവയിലേക്കുള്ള ലിങ്കുകൾ ഞാൻ നിങ്ങൾക്ക് തരാം അത് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാക്കും അങ്ങനെ അത് സ്റ്റോപ്പ് കോഡണിൽ എത്തുമ്പോഴേക്കും എന്താണ് സംഭവിച്ചത് അവിടെ റൈബോസോം ഇരുന്നു ഇത് റൈബോസോമിലെ എ സൈറ്റായി മാറുന്നു ഇവിടെയാണ് പെപ്റ്റിഡൈൽ സൈറ്റ് അതിനാൽ മൂന്നാമത്തെ അമിനോ ആസിഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന നാലാമത്തെ അമിനോ ആസിഡുമായി ബന്ധപ്പെട്ട ടിആർഎൻഎ ഉണ്ടായിരിക്കും അത് രണ്ടാമത്തെ അമിനോ ആസിഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അത് ആദ്യത്തെ അമിനോ ആസിഡായ മെഥിയോണിനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് അമിനോ ആസിഡുകളുടെ ഒരു ശൃംഖല സംശ്ലേഷണം ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ റൈബോസോം സ്റ്റോപ്പ് കോഡൺ എന്ന സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു ഇപ്പോൾ സ്റ്റോപ്പ് കോഡണിന് tRNA ഇല്ല അതിനാൽ റൈബോസോം ഈ സ്റ്റോപ്പ് കോഡണിൽ അടിക്കുമ്പോഴെല്ലാം ടിആർഎൻഎയ്ക്ക് പകരം "റിലീസ് ഫാക്ടർ" എന്ന് വിളിക്കുന്നത് വരുന്നു ഒരു റിലീസ് ഫാക്ടർ വരുന്നു ഇത് ഒരു പ്രോട്ടീനാണ് ഇത് ഈ എ സൈറ്റിലേക്ക് വരികയും ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു അതിനെ റിലീസ് ഫാക്ടർ എന്ന് വിളിക്കുന്നു ഒരിക്കൽ ഈ റിലീസ് ഫാക്ടർ വന്ന് എ സൈറ്റുമായി ബന്ധിപ്പിച്ചാൽ ഇത് അടിസ്ഥാനപരമായി ഈ സമുച്ചയത്തിന്റെ വിഘടനത്തിന് കാരണമാകുന്നു അങ്ങനെ അതിന്റെ അവസാനം എല്ലാം വിഘടിക്കുന്നു ചെറിയ ഉപയൂണിറ്റ് വലിയ ഉപയൂണിറ്റ് റൈബോസോമുകൾ എല്ലാം വേർപിരിയുന്നു എംആർഎൻഎ വേർപിരിയുന്നു ടിആർഎൻഎ വീണ്ടും സ്വതന്ത്രമാകുന്നു അവസാനത്തെ ടിആർഎൻഎ പിന്നെ നിങ്ങൾക്ക് പോളിപെപ്റ്റൈഡ് ശൃംഖല മാത്രമായി അവശേഷിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് മെഥിയോണിൻ ഉണ്ട് രണ്ടാമത്തെ അമിനോ ആസിഡ് ഉണ്ട് മൂന്നാമത്തെ അമിനോ ആസിഡ് ഉണ്ട് അവസാനം നാലാമത്തെ അമിനോ ആസിഡും ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പെപ്റ്റൈഡ് ചെയിൻ ലഭിച്ചു ഇതൊരു പോളിപെപ്റ്റൈഡാണ് അതിനാൽ നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെയാണ് ഇത് സംഭവിച്ചത് നിങ്ങൾ mRNA യിലെ സ്റ്റാർട്ട് കോഡണിൽ തുടങ്ങി റൈബോസോമുകളുടെ അസംബ്ലി മെഥിയോണിൻ വരുന്നു ആന്റികോഡണുമായി അടിസ്ഥാന ജോടിയാക്കൽ വഴി വീണ്ടും രണ്ടാമത്തെ ടിആർഎൻഎ വരുന്നു പോളിപെപ്റ്റൈഡിന്റെ ഈ വളരുന്ന ശൃംഖലയിലേക്ക് അമിനോ ആസിഡുകൾ ചേർക്കുന്നത് തുടരുന്നു ഇപ്പോൾ ഇതൊരു പോളിപെപ്റ്റൈഡ് ശൃംഖലയാണ് ഇത് അമിനോ ആസിഡുകളുടെ ഒരു രേഖീയ ക്രമീകരണം മാത്രമാണ് എന്നാൽ വാസ്തവത്തിൽ പ്രോട്ടീനുകൾ കൂടുതൽ മടക്കിക്കളയുന്നു ഇത് സാധ്യമാണ് കാരണം ഈ ട്രാൻസ്ലേഷൻ പ്രക്രിയയ്ക്ക് ശേഷം റിലീസ് ഘടകം ബന്ധിപ്പിക്കുന്നതിനാൽ ടെർമിനേഷൻ നിർത്തും അതിനാൽ ട്രാൻസ്ലേഷൻ നടന്നുകഴിഞ്ഞാൽ പോളിപെപ്റ്റൈഡ് ചെയിൻ തയ്യാറാണ് ഈ പോളിപെപ്റ്റൈഡ് ചെയിൻ അതിനാൽ ഇത് ഇപ്പോൾ പോളിപെപ്റ്റൈഡ് ചെയിൻ ആണെന്ന് പറയാം ഈ പോളിപെപ്റ്റൈഡ് ചെയിൻ ഫോൾഡിങ്ങിന് വിധേയമാകും ഞാൻ ഈ ത്രെഡ് എടുത്ത് അതിനെ ചുരുട്ടാൻ ശ്രമിക്കുന്നത് പോലെയാണ് അത് ഒരു നൂൽ പന്തായി രൂപപ്പെടുത്തുന്നു അതിനാൽ ആ പ്രോസസ്സിംഗ് നടക്കുന്നത് ചാപ്പറോണുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക ഘടനകൾക്കുള്ളിലാണ് അതിനാൽ ചാപ്പറോൺ പ്രോട്ടീനുകൾ പ്രോട്ടീൻ ഫോൾഡിംഗ് എന്ന് വിളിക്കപ്പെടുന്നവ കൊണ്ടുവരുന്നു അതിനാൽ അമിനോ ആസിഡുകൾ ശ്രേണിയിൽ ചേർന്ന ശേഷം അവ മടക്കിക്കളയണം അതിനാൽ പ്രോട്ടീൻ മടക്കിക്കളയുന്നു ഇത് പൂർണ്ണമായും 3 ഡി ഘടനയിലേക്ക് മാറുന്നു ആവശ്യമെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്യുലത്തിലും യൂകാരിയോട്ടുകളിലെ ഗോൾഗി കോംപ്ലക്സിലും സംഭവിക്കുന്നതുപോലെ ഈ മടക്കിയ പ്രോട്ടീൻ കൂടുതൽ പ്രോസസ്സ് ചെയ്യുകയും പിന്നീട് സെക്രീറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അതിന്റെ ഉചിതമായ ലക്ഷ്യത്തിലേക്ക് അയയ്ക്കുകയും ചെയ്യും അതിനാൽ ഇതാണ് ഈ പ്രോട്ടീൻ ഫോൾഡിംഗും ആവശ്യമായ മറ്റ് നിർദ്ദിഷ്ട പരിഷ്കാരങ്ങളും ലളിതമാക്കുന്നതിനായി ഞാൻ അവയിലേക്ക് പോകുന്നില്ല ഈ പരിഷ്കാരങ്ങളെയാണ് പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻസ് എന്ന് വിളിക്കുന്നത് ഈ വിഡിയോയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചും സംഗ്രഹിച്ചും ഞാൻ ഈ വീഡിയോ നിർത്തട്ടെ എങ്ങനെയാണ് എംആർഎൻഎയിൽ എഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റ് ടിആർഎൻഎ ഡീകോഡ് ചെയ്യുന്നതും കോഡണുകൾ എന്ന് വിളിക്കപ്പെടുന്ന 3 അക്ഷര പദങ്ങളാക്കി സ്ക്രിപ്റ്റ് എഴുതുന്നതും എന്ന് നമ്മൾ കണ്ടു കോഡണുകൾ കോംപ്ലിമെന്ററി ആന്റികോഡൺ വഴി ടിആർഎൻഎ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു ഒരു പ്രത്യേക കോഡോണിന്റെ പ്രതികരണമായി പ്രത്യേക അമിനോ ആസിഡ് കൊണ്ടുവരുന്നത് tRNA ആണ് കൂടാതെ അമിനോ ആസിഡിന്റെ ഈ മുഴുവൻ കൂട്ടിച്ചേർക്കലും റൈബോസോമിലെ കോഡണിലൂടെ റൈബോസോമിന്റെ സഹായത്തോടെ സംഭവിക്കുന്നു റൈബോസോമും മുഴുവൻ ട്രാൻസ്ലേഷൻ മെഷിനറിയും ഒരു സ്റ്റോപ്പ് കോഡണിലേക്ക് കുതിച്ചുകഴിഞ്ഞാൽ റിലീസ് ഘടകം വരുന്നതോടെ എല്ലാ കാര്യങ്ങളും വിഘടിക്കുന്നു പെപ്റ്റൈഡ് ശൃംഖല ബാക്കിയുള്ള സമുച്ചയത്തിൽ നിന്ന് വേർപെടുത്തുകയും ഈ പെപ്റ്റൈഡ് ശൃംഖല പിന്നീട് വിവർത്തനാനന്തര പരിഷ്ക്കരണ പ്രക്രിയയ്ക്ക് വിധേയമാവുകയും ചെയ്യും സന്ദേശം എങ്ങനെ ഡീകോഡ് ചെയ്യപ്പെടുന്നു എന്ന ആശയം മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഈ ആനിമേഷൻ വീഡിയോകളിലൂടെ ശരിക്കും കടന്നുപോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവ ശരിക്കും വളരെ നല്ലതാണ് വെറും 7 മുതൽ 10 മിനിറ്റിനുള്ളിൽ പ്രക്രിയ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അവ കൃത്യമായി കാണിക്കുന്നു അതുകൊണ്ട് ബ്ലാക്ക്ബോർഡിൽ എനിക്ക് ചെയ്യാൻ കഴിയാത്തത് ഈ പ്രത്യേക വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും നിങ്ങൾക്ക് എല്ലാ 64 കോഡണുകളെക്കുറിച്ചും അവ ശരിക്കും എന്താണ് കോഡ് ചെയ്യുന്നതെന്നും അത് എങ്ങനെ വായിക്കാമെന്നും അറിയണമെങ്കിൽ കോഡൺ ചാർട്ടിൽ മറ്റൊരു വീഡിയോയുണ്ട് അതിനാൽ നന്ദി ഈ വീഡിയോ പരമ്പര നിങ്ങൾ ആസ്വദിച്ചുവെന്ന് പ്രതീക്ഷിക്കുന്നു അവിടെയും ഇവിടെയും ചില തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങൾ അവ തിരുത്താൻ ശ്രമിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി ഞങ്ങൾക്ക് തിരികെ എഴുതുക നിങ്ങളുടെ ആശയക്കുഴപ്പങ്ങൾ ഞങ്ങൾ വ്യക്തമാക്കാൻ ശ്രമിക്കും